അടുത്തതായി ഡാറ്റാബേസ് ഇൻഡെക്സിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം അതിനാൽ ആദ്യം ഇൻഡെക്സിംഗ് എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്ന് മനസിലാക്കാൻ നമുക്ക് ശ്രമിക്കാം നിങ്ങൾ എല്ലാവരും ഒരുപക്ഷേ ഇൻഡെക്സിംഗിന്റെ ഉദാഹരണങ്ങൾ ഒരു പുസ്തകത്തിന്റെ അവസാനത്തിൽ കണ്ടിട്ടുണ്ടാകും ചില വാക്കുകൾക്കു നേരെ പേജ് നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം അതിനെ ഇൻഡക്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇൻഡെക്സിംഗ് തിരയൽ വേഗത്തിലാക്കുന്നതിന് എന്നതാണ് ഒരാളെ സഹായിക്കുന്നു അതിനാൽ ഒരു പുസ്തകത്തിന് ഇൻഡക്സ് ഇല്ലെന്നും ഒരു പ്രത്യേക വാക്ക് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സങ്കൽപ്പിക്കുക എന്താണ് അതിനുള്ള മാർഗം ആ പ്രത്യേക വാക്ക് കണ്ടെത്താൻ നിങ്ങൾ പുസ്തകത്തിലൂടെ പൂർണമായും പോകേണ്ടി വരും അഥവാ മുഴുവൻ പേജുകളിലൂടെ മുഴുവൻ വാക്കുകളിലൂടെ ഇൻഡക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സിലേക്ക് പോകുക നിങ്ങൾ തിരയുന്ന വാക്ക് കണ്ടെത്തി പേജ് നമ്പറിലേക്ക് പോകുക ഇപ്പോൾ ഇന്ഡക്സിൽ അക്ഷരമാലാക്രമത്തിൽ വാക്കുകൾ സംഭരിക്കപ്പെടുന്നു എന്നത് പ്രധാനമാണ് അതിനാൽ ഇന്ഡക്സിനകത്തു വാക്ക് കണ്ടെത്തുന്നത് വേഗതയേറിയതാണ് അതിനാൽ അതാണ് ഇൻഡെക്സിംഗിന്റെ പൂർണമായ ആശയം കൂടാതെ ഡാറ്റാബേസുകൾ ഇൻഡെക്സ് വളരെയധികം ഉപയോഗിക്കുന്നു അതിനാൽ കൊയ്റീസ് വേഗത്തിലാകും അതിനാൽ നമ്മൾ സംസാരിക്കുന്ന തരത്തിലുള്ള കൊയ്റീസ് എന്തൊക്കെയാണ് ഈ സെലക്ട് കൊയ്റിയെക്കുറിച്ച് ചിന്തിക്കുക എല്ലാ ശാഖകളും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ 300 ൽ കൂടുതലുള്ള എല്ലാ വായ്പകളും തിരഞ്ഞെടുക്കുക തുടങ്ങിയവ ഇപ്പോൾ അത്തരം വായ്പകളെല്ലാം നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഇത് ചെയ്യുന്നതിനുള്ള നിഷ്കളങ്കമായ മാർഗം എല്ലാ വായ്പകളിലൂടെയും കടന്നുപോകുകയും 300 ൽ കൂടുതൽ വരുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഒരു ഇൻഡക്സ് നിർമ്മിക്കപ്പെട്ടുവെന്ന് കരുതുക ഇൻഡെക്സുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും ഇൻഡെക്സ് നിർമ്മിച്ചിരിക്കുന്നത് 200 ൽ കൂടുതലുള്ള എല്ലാ ലോണുകളും 400 ൽ താഴെയുള്ള എല്ലാ ലോണുകളും ഉൾകൊള്ളുന്ന രീതിയിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് വായ്പകളുടെ ഈ ബക്കറ്റിനുള്ളിൽ അത് കണ്ടെത്തുക എന്നതാണ് നേരത്തെ പറഞ്ഞത് അല്ല അതിനാൽ ഇത് വളരെ വേഗത്തിലാക്കുന്നു അതിനാൽ അതിനെ ഇൻഡെക്സിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ഇൻഡെക്സിംഗിൽ ചെയ്യുന്നത് ഒരു സെർച്ച് കീ ഉപയോഗിക്കുന്നു എന്നതാണ് അതിനാൽ നമ്മൾ സെർച്ചിങ്ങിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഒരു സെർച്ച് കീ ഉപയോഗിക്കുന്നു അതിനാൽ ഈ പ്രത്യേക കീ കണ്ടെത്താനും ഇത് എങ്ങനെ ചെയ്യണമെന്നു മനസ്സിലാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ഇൻഡെക്സ് ഫയൽ പരിപാലിക്കപ്പെടുന്നു ഒന്നിലധികം ഇൻഡക്സ് എൻട്രികൾ അടങ്ങുന്ന ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ട് അതിനാൽ ഓരോ ഇൻഡക്സ് എൻട്രി 1 ഇൻഡക്സ് എൻട്രി 2 മുതലായവ അതിനാൽ ഒന്നിലധികം ഇൻഡക്സ് എൻട്രികൾ പരിപാലിക്കപ്പെടുന്നു അപ്പോൾ ഒരു ലുക്ക് ഇൻഡക്സ് എൻട്രി എന്താണ് അതിൽ ഒരു പ്രത്യേക സെർച്ച് കീയും അതിനനുസൃതമായ ഒബ്ജക്റ്റും അടങ്ങിയിരിക്കുന്നു അതിനാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡിസൈൻ ചെയ്തുകഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മൾ ഇത് കണ്ടു എന്നതാണ് ഇത് തന്നെയാണ് ഹാഷിംഗിൽ ചെയ്യുന്നത് ഹാഷിംഗ് സമാനമായ കാര്യം തന്നെ ചെയ്യുന്നു ഒരു സെർച്ച് കീ ഉണ്ട് തുടർന്ന് സെർച്ച് കീയുമായി ബന്ധപ്പെട്ട ഒരു യഥാർത്ഥ ഒബ്ജക്റ്റ് ഉണ്ട് ഹാഷ് കീയുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിംഗിന്റെ തരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ എങ്ങനെയാണ് ഒരു ഇൻഡെക്സ് വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനാൽ വ്യത്യസ്ത തരം ഇൻഡെക്സിംഗ് സ്കീമുകൾ ഉണ്ടാകാം ഒരു ഇൻഡെക്സിംഗ് സ്കീമിനെ വിലയിരുത്തുന്നതിന് താഴെ പറയുന്ന കാര്യം ആവശ്യമാണ് നമ്മൾ ഏത് അടിസ്ഥാനത്തിലാണ് ഇൻഡക്സ് ചെയ്യുന്നത് അത് തീർച്ചയായും സെർച്ച് ടൈമാണ് അതിനാൽ ഇൻഡെക്സിംഗിന്റെ ഉദ്ദേശം പൂർണമായും സെർച്ച് ടൈം കുറയ്ക്കുക എന്നതാണ് അതിനാൽ അതിനു അത് ചെയ്യാൻ കഴിയണം തുടർന്ന് മോഡിഫിക്കേഷൻ ഓവർഹെഡ് അതിനാൽ മോഡിഫിക്കേഷൻ ഓവർഹെഡ് എന്താണ് അർത്ഥമാക്കുന്നത് യഥാർത്ഥ ഡാറ്റാബേസിലെ ഡാറ്റ മാറിയെന്ന് കരുതുക ഇപ്പോൾ കോറസ്പോണ്ടിങ് ഇൻഡക്സ് അല്ലെങ്കിൽ മുഴുവൻ ഇൻഡക്സ് ഫയലും മാറ്റാൻ എത്ര സമയം ആവശ്യമാണ് മോഡിഫിക്കേഷൻ ഓവർഹെഡും സ്പേസ് ഓവർഹെഡും അതിനാൽ യഥാർത്ഥ ഡാറ്റ 1GB ആണെന്ന് കരുതുക അതിനാൽ ഇന്ഡക്സിന് എത്ര അധിക സ്ഥലം ആവശ്യമാണ് കാരണം ഇൻഡക്സ് യഥാർത്ഥ ഡാറ്റയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്കു കാണാനാകും അതിനാൽ കുറച്ച് അധിക സ്ഥലം ഉണ്ടാകും എന്നാൽ നമ്മൾ സംസാരിക്കുന്ന ആ സ്പേസ് ഓവർഹെഡ് എന്താണ് അതിനാൽ ഒരു ഇൻഡക്സ് വിലയിരുത്തുന്നതിനുള്ള മൂന്ന് മാനദണ്ഡങ്ങൾ ഇവയാണ് പിന്നെ രണ്ട് അടിസ്ഥാന തരം ഇൻഡക്സ് സ്കീമുകൾ ഉണ്ട് ആദ്യത്തേതിനെ ഓർഡേർഡ് ഇൻഡെക്സിംഗ് സ്കീം എന്നും രണ്ടാമത്തേതിനെ ഹാഷ് ഇൻഡെക്സ് എന്നും വിളിക്കുന്നു അതിനാൽ ഓർഡേർഡ് ഇൻഡെക്സിംഗ് സ്കീമുകളിൽ സെർച്ച് കീകൾ ഓർഡർ ചെയ്യപ്പെടുന്നു സെർച്ച് കീകൾ ഒരു ഓർഡേർഡ് രീതിയിൽ സൂക്ഷിക്കുന്നു ഇതാണ് ഒരു പുസ്തകത്തിന്റെ ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത് സെർച്ച് കീകൾ ഇൻഡെക്സിലും ഹാഷ് കീയിലും ഓർഡേർഡ് രീതിയിൽ സൂക്ഷിക്കുന്നു സെർച്ച് കീകൾ ചില ഹാഷ് ഓർഡറിലാണ് അല്ലെങ്കിൽ ഹാഷിംഗ് അനുസരിച്ചാണ് അതിനാൽ അടിസ്ഥാനപരമായി ഒരു ഓർഡർ ഇല്ല അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഹാഷിംഗ് ഓർഡർ ഉണ്ടെന്ന് പറയാൻ കഴിയും അതിനാൽ ഇത് ഹാഷ് ഫംഗ്ഷനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഹാഷിംഗ് എന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇൻഡെക്സിംഗിലേക്ക് പോകാം അതിനാൽ നമുക്ക് ഹാഷിംഗിനെക്കുറിച്ച് സംസാരിക്കാം രണ്ട് പ്രധാന തരം ഹാഷിംഗ് ഉണ്ട് അതിനാൽ അതിനുമുമ്പ് ഒരു ഹാഷ് ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് ഹാഷ് ഫംഗ്ഷൻ ഇനിപ്പറയുന്നവ ചെയ്യുന്നു ഒരു കീ k Key 'k' ഉണ്ട് തുടർന്ന് ഒരു ഹാഷ് ഫംഗ്ഷൻ അതിനുമേൽ പ്രയോഗിക്കുന്നു അതിൽ ഹാഷ് ഫംഗ്ഷൻ 'h' Hash Function 'h' പ്രയോഗിക്കുന്നു അതിനാൽ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കീയുമായി ബന്ധപ്പെട്ട കണ്ടൻറ്സ് അഥവാ k യുമായി ബന്ധപ്പെട്ട കണ്ടൻറ്സ് എന്നിവയുടെ ലൊക്കേഷൻ നൽകുന്നു അതിനാൽ അത് ഒബ്ജെക്ടിൽ ആകാം അത് യഥാർത്ഥത്തിൽ മറ്റെന്തെങ്കിലുമാകാം എന്നിരുന്നാലും കീയുമായി ബന്ധപ്പെട്ടവ കണ്ടെത്താനായാൽ അതാണ് ഹാഷിംഗിന്റെ പൂർണമായ ഉദ്ദേശം ഇപ്പോൾ ഒരു ഡാറ്റാബേസിന്റെ പശ്ചാത്തലത്തിൽ അത് എന്താണ് അർത്ഥമാക്കുന്നത് കീ എന്നത് സെർച്ച് കീയും ഹാഷ് കീയും ആണ് സെർച്ച് കീയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സെക്ടർ ഡിസ്കിൽ ഉണ്ട് അതിനാൽ ഡാറ്റാബേസിലെ സന്ദർഭം അതാണ് അതിനാൽ അതാണ് ഹാഷിംഗ് തുടർന്ന് വ്യത്യസ്ത തരം ഹാഷിംഗ് ഉണ്ട് ആദ്യത്തേതിനെ സ്റ്റാറ്റിക് ഹാഷിംഗ് എന്ന് വിളിക്കുന്നു അപ്പോൾ സ്റ്റാറ്റിക് ഹാഷിംഗിന്റെ വഴികൾ എന്തൊക്കെയാണ് ആദ്യത്തേത് ചെയ്നിങ് ആണ് അതിനാൽ സ്റ്റാറ്റിക് ഹാഷിംഗ് അടിസ്ഥാനപരമായി സ്റ്റാറ്റിക് ഹാഷിംഗ് പറയുന്നത് എം ഹാഷ് ലൊക്കേഷനുകൾ ഉണ്ടെന്നാണ് അതിനാൽ ഹാഷ് ചെയ്യേണ്ടതെല്ലാം ഈ m ഇൽ ഉള്ള ഒന്നായിരിക്കും അതിനാൽ h ലൊക്കേഷനുകൾ ഉണ്ടെങ്കിൽ ഒരു k mod m ഉണ്ട് എന്നത് ഹാഷിംഗിന്റെ വളരെ സാധാരണ ഉദാഹരണമാണ് അതിനാൽ ഏത് കീയും നിങ്ങൾക്ക് ഒരു സംഖ്യ നൽകുന്നു നിങ്ങൾ m അനുസരിച്ച് ഒരു മോഡുലസ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 മുതൽ m 1 വരെയുള്ള ഒരു സംഖ്യ ലഭിക്കുന്നു അതായത് കീ എവിടെ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ കീയുമായി ബന്ധപ്പെട്ട കണ്ടൻറ് എവിടെ സംഭരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് ഇപ്പോൾ ചെയിനിംഗിന്റെ പശ്ചാത്തലം എന്താണ് ചെയിനിംഗിനെ ചിലപ്പോൾ ഓപ്പൺ ഹാഷിംഗ് എന്നും വിളിക്കുന്നു ചെയിനിങ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ നമ്മൾ ചെയിനിംഗിലേക്ക് പോകുന്നതിനുമുമ്പ് നമുക്ക് ഡാറ്റാബേസ് സന്ദർഭത്തിലേക്കും ഹാഷിംഗിന്റെ പശ്ചാത്തലത്തിലേക്കും തിരിച്ചുപോകാം എന്താണ് ചെയ്യുന്നത് എന്നാൽ താഴെ പറയുന്നവയാണ് ഡാറ്റാബേസിൽ വസ്തുക്കൾ ബക്കറ്റുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഡിസ്കിലെ പേജുകൾ അനുസരിച്ചാണ് ഒബ്ജെക്ട്സ് സൂക്ഷിക്കുന്നത് അതിനാൽ ഒരു പേജിൽ ഒന്നിലധികം സെർച്ച് കീകൾ അടങ്ങിയിരിക്കാം അതിനാൽ ഇതിൽ ഒന്നിലധികം സെർച്ച് കീകൾ അടങ്ങിയിരിക്കാം അതിനാൽ ഒരു സെർച്ച് കീ നൽകിക്കഴിഞ്ഞാൽ ഹാഷിംഗിന്റെ ഉദ്ദേശം അത് സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ബക്കറ്റ് കണ്ടെത്തുക എന്നതാണ് ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു പേജിൽ ഒന്നിലധികം സെർച്ച് കീകൾ അടങ്ങിയിരിക്കാം അതിനാൽ സാധാരണ ഹാഷിംഗിൽ അഥവാ OS അർത്ഥത്തിൽ നമ്മൾ കൊളിഷൻ എന്ന് വിളിക്കുന്നു ഒരു കൊളിഷൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ രണ്ട് ഹാഷ് കീകൾക്ക് ഒരേ ലൊക്കേഷൻ ആണെങ്കിൽ അതാണ് കൊളിഷൻ അതിനാൽ അവ കൊളൈഡ് ചെയ്യുന്നു കാരണം അവർ രണ്ടുപേരും ഒരു പ്രത്യേക സ്ഥാനത്ത് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നു ഡാറ്റാബേസിന്റെ പശ്ചാത്തലത്തിൽ കൊളിഷൻ എന്ന ആശയം ഇല്ല കാരണം ഒന്നിലധികം സെർച്ച് കീകൾ ഒരു ബക്കറ്റിൽ സംഭരിക്കാനാകും അതിനാൽ കൊളീഷൻ ഒന്നും തന്നെ അർത്ഥമാക്കുന്നില്ല ഓവർഫ്ലോ എന്ന ആശയം ആണ് അർത്ഥവത്തായത് ഓവർഫ്ലോ എന്താണെന്നാൽ നിരവധി സെർച്ച് കീകൾ ഉള്ളപ്പോൾ അഥവാ ഒരു പ്രത്യേക ബക്കറ്റിൽ മൂന്ന് സെർച്ച് കീകൾ സൂക്ഷിക്കാൻ കഴിയുമെന്ന് കരുതുക ഇപ്പോൾ മൂന്നിൽ കൂടുതൽ ഉദാഹരണത്തിന് നാല് ഹാഷ് കീകൾ ഒരേ ബക്കറ്റിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവെന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ ഓവർഫ്ലോ സംഭവിക്കാം അപ്പോൾ ബക്കറ്റ് ഓവർഫ്ലോ ആയി എന്ന് പറയാം കാരണം ബക്കറ്റ് അല്ലെങ്കിൽ പേജ് അല്ലെങ്കിൽ സെക്ടർ അല്ലെങ്കിൽ എന്തുതന്നെയായാലും ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവിടെ മതിയായ ഇടമില്ല അതിൽ മൂന്നെണ്ണം മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ അതിനാൽ മൂന്നിനേക്കാൾ കൂടുതലായി എന്ത് വന്നാലും പ്രശ്നമാണ് അത്രയുമാണ് ഈ ഓവർഫ്ലോയെക്കുറിച്ച് പറയാൻ ഉള്ളത് സ്റ്റാറ്റിക് ഹാഷിംഗ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് സംസാരിക്കാം അതിനാൽ സ്റ്റാറ്റിക് ഹാഷിംഗ് ഉണ്ട് അവിടെ ആദ്യത്തെ സ്കീമിനെ ചെയിനിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ സ്റ്റാറ്റിക് ഹാഷിംഗ് മുതലായവയെല്ലാം ഓവർഫ്ലോ റെസല്യൂഷൻ മെക്കാനിസം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനാൽ കൊളിഷൻ റെസൊല്യൂഷൻ മെക്കാനിസത്തിനു വിപരീതമായി ഇതിനെ ഓവർഫ്ലോ റെസല്യൂഷൻ മെക്കാനിസം എന്ന് വിളിക്കുന്നു അതിനാൽ ചെയ്നിംഗ് അല്ലെങ്കിൽ ഓപ്പൺ ഹാഷിംഗ് എന്താണ് ചെയ്യുന്നത് എന്നാൽ ഒരേ ബക്കറ്റിലേക്ക് ഒന്നിലധികം കീകൾ പോകുമ്പോൾ ഇത് ബക്കറ്റ് ആണെന്ന് കരുതുക തുടർന്ന് ഒന്നിലധികം കീകൾ അതിലേക്ക് പോകുന്നു മറ്റൊരു ബക്കറ്റ് അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ചെയ്ൻ ചെയ്തിരിക്കുന്നു അതിനാൽ അതേ ബക്കറ്റിൽ വീഴുന്ന അടുത്ത കീ അതിലേക്ക് ബന്ധിച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് അയയ്ക്കും അതിനാൽ അതിനെ ചെയിനിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇവ ഓവർഫ്ലോ ബക്കറ്റുകളാണ് ഇത് പ്രാഥമിക ബക്കറ്റ് ആണ് ഒരു പ്രത്യേക ഹാഷ് ഫംഗ്ഷൻ അതിന്റെ വഴി കണ്ടെത്തുന്നു ശേഷം അത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഓവർഫ്ലോ ബക്കറ്റിലേക്ക് പോകുന്നു അതാണ് ചെയ്നിംഗ് ചെയ്നിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടുത്തതിനെ ഓപ്പൺ അഡ്രസ്സിംഗ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഹാഷിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഓവർഫ്ലോ ബക്കറ്റുകൾ ഉപയോഗിക്കില്ല അതിനാൽ ഓവർഫ്ലോ ബക്കറ്റുകൾ ഉപയോഗിച്ചിട്ടില്ല അത് ചെയ്യുന്നത് എന്താണെന്നാൽ അത് അന്വേഷിക്കുന്നു അത് പ്രോബ് ചെയ്യുന്നു അത് മറ്റൊരു സ്ഥലം മറ്റൊരു ബക്കറ്റ് അന്വേഷിക്കുന്നു ഒരു പ്രോബ് സീക്വൻസ് അനുസരിച്ചാണ് ഇത് അന്വേഷിക്കുന്നത് തുടർന്ന് അന്വേഷണം നടത്താൻ നിരവധി മാർഗങ്ങളുണ്ട് നമുക്ക് അവ പട്ടികപ്പെടുത്താം ആദ്യത്തേതിനെ ലീനിയർ പ്രോബിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ പ്രോബ് സീക്വൻസിന്റെ ഇടവേളകൾ നിശ്ചിതമായി തുടരുന്നു അതിനാൽ ഇത് h k i ആണെന്ന് കരുതുക അതിനാൽ 'i' എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഇത് 'ith' അറ്റെംപ്റ്റാണ് എന്നാണ് അതിനാൽ ഇതാണ് കീ ഇതാണ് 'ith' അറ്റംപ്റ് അതിനാൽ ബക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴെല്ലാം അതിനാൽ ബക്കറ്റ് നിറയുമ്പോഴെല്ലാം അത് ഹാഷ് ചെയ്യാൻ മറ്റൊരു ശ്രമം നടത്തുന്നു അതിനാൽ ഇത് മറ്റൊരു ഹാഷ് സ്ഥാനം കണ്ടെത്താനുള്ള 'ith' അറ്റെംപ്റ്റാണ് അതിനാൽ ഇത് ആണെന്ന് കരുതുകയാണെങ്കിൽ അതിനാൽ ഇത് ഒരു കോൺസ്റ്റന്റ് ആണ് ഇത് ഒരു ലീനിയർ ആണ് എന്തുകൊണ്ടാണ് അതിനെ ലീനിയർ ആയ കാര്യം എന്ന് വിളിക്കുന്നത് കാരണം യഥാർത്ഥ പൊസിഷന് കോറസ്പോണ്ടിങ് ആയ പൊസിഷൻ ലീനിയർ ആയി മാറുന്നു അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ പ്രോബിംഗ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ക്വാഡ്രാറ്റിക് പ്രോബിങ് ഉണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ഈ ഫങ്ഷൻ i2 ആയി മാറുന്നു അതിനാൽ ഇത് ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാലാണ് ഇതിനെ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് വിളിക്കുന്നത് തുടർന്ന് മൂന്നാമത്തേതിനെ ഡബിൾ ഹാഷിംഗ് എന്ന് വിളിക്കുന്നു അവിടെ ith അറ്റംപ്റ് ഉപയോഗിക്കുന്നതിനുപകരം ഒരു പുതിയ ഫങ്ഷൻ വിലയിരുത്തപ്പെടുന്നു അതിനാൽ അത് ആണ് അതാണ് ചെയ്യുന്നത് അതിനാൽ ഒരു കോൺസ്റ്റന്റിനു പകരം ആണ് അത് ആണ് അതിനാൽ എല്ലായിടത്തും ഈ 'i' ഫംഗ്ഷൻ ഉണ്ടെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ലീനിയർ പ്രോബിങ്ങിൽ ഇത് ഒരു കോൺസ്റ്റന്റ് ആണ് ക്വാഡ്രാറ്റിക് പ്രോബിങ്ങിൽ ഇത് ആണ് ഇത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എന്ന് എഴുതാം ഡബിൾ ഹാഷിങ്ങിൽ ഇത് തികച്ചും പുതിയ ഫംഗ്ഷൻ ആണ് ഡബിൾ അഥവാ ഡബിൾ ഹാഷിംഗ് അതിനാൽ ഇതാണ് സ്റ്റാറ്റിക് ഹാഷിംഗിന്റെ മൂന്ന് വ്യത്യസ്ത വഴികൾ സ്റ്റാറ്റിക് ഹാഷിംഗിനു ഇനിപ്പറയുന്ന പ്രശ്നം ഉണ്ട് അതായത് തുടക്കത്തിൽ ഒരാൾ m ബക്കറ്റുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ഡാറ്റ ഈ m ബക്കറ്റുകളിലൊന്നിലും ഫിറ്റ് ആകുന്നില്ലെന്നും കരുതുക അതിനാൽ ഇതിനുള്ള ഡാറ്റ m ബക്കറ്റുകളേക്കാൾ കൂടുതലാണ് അപ്പോൾ സംഭവിക്കുന്നത് ഈ സ്റ്റാറ്റിക് ഹാഷിംഗ് പെർഫോമൻസ് കുറയുന്നു എന്നതാണ് അതിനാൽ സ്റ്റാറ്റിക് ഹാഷിംഗിന്റെ പ്രശ്നം എത്ര ഡാറ്റ ഹാഷ് ചെയ്യാൻ പോകുന്നു എന്ന ആശയത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് പക്ഷേ ഡാറ്റ അത് ഊഹിച്ചതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഊഹിച്ചതിനേക്കാൾ വളരെ കുറവോ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അഡോപ്റ് ചെയ്യാൻ സാധിക്കില്ല അതിനാൽ അതാണ് സ്റ്റാറ്റിക് ഹാഷിംഗിന്റെ പ്രശ്നം അത് കൈകാര്യം ചെയ്യുന്നതിനായി ഡൈനാമിക് ഹാഷിംഗ് എന്ന് വിളിക്കുന്ന ഒന്നുണ്ട് അതിനാൽ ഡൈനാമിക് ഹാഷിംഗ് ഹാഷിംഗ് ഫങ്ക്ഷൻ സ്വയം ചലനാത്മകമായി സ്വീകരിച്ച് സാഹചര്യം ശരിയാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് ഹാഷ് ഫംഗ്ഷൻ സ്വയം മാറ്റുന്നു വരുന്ന ഡാറ്റയുടെ വോളിയം ഓട്ടോമാറ്റിയ്ക്കായി ക്രമീകരിക്കുന്നതിന് ഹാഷ് ഫംഗ്ഷൻ സ്റ്റാറ്റിക്കല്ല ഡൈനാമിക് ഹാഷിംഗിന്റെ ഒരുപാട് രീതികളെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കില്ല ഡൈനാമിക് ഹാഷിംഗിന്റെ വളരെ ലളിതമായ ഒരു രീതിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇതിനെ യഥാർത്ഥത്തിൽ ഡൈനാമിക് ഹാഷിംഗ് എന്ന് വിളിച്ചിരുന്നു ഒരാൾക്ക് പോകാൻ കഴിയുന്ന പ്രൈമറി പേജ് ഇതാണ് എന്ന് കരുതുക പ്രൈമറി പേജ് അല്ലെങ്കിൽ പ്രൈമറി ബക്കറ്റ് അല്ലെങ്കിൽ എന്തുതന്നെ അതിനെ വിളിക്കുകയാണെങ്കിലും അതിനാൽ ഇത് പോകുന്നു അത് ഓവർഫ്ലോ ആയെന്നു കരുതുക അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നാൽ ഇത് ചില ഫങ്ക്ഷനുകളാൽ നിർമ്മിച്ചതാണ് നമുക്ക് എന്ന് പറയാം അതിനാൽ ഇത് 0th ഫങ്ക്ഷൻ ആണ് തുടർന്ന് ഫങ്ക്ഷന്റെ ഒരു ശ്രേണി ഉണ്ട് അതായത് ഡാറ്റ ഓവർഫ്ലോ ആവുമ്പോൾ ചെയ്യാവുന്ന ഫങ്ക്ഷന്റെ ഒരു ശ്രേണി അവിടെ ഉണ്ട് അതിനാൽ ഒരു പ്രൈമറി ബക്കറ്റിൽ നിന്ന് ഓവർഫ്ലോ ആവുന്ന എല്ലാ ഡാറ്റയും സീരിസിലെ അടുത്ത ഫങ്ക്ഷൻ പ്രയോഗിച്ചു കഴിഞ്ഞു അതിനാൽ ഇത് യിലേക്കും ഇത് യിലേക്കും പോകുന്നു അതിനാൽ ഉം ഉം അതേ കാര്യത്തിലേക്കു പോകുകയാണെങ്കിലും അതിന് ശേഷം അത് വ്യത്യസ്ത ബക്കറ്റുകളിലേക്ക് പോകുന്നു അതാണ് ഡൈനാമിക് അവയിലൊന്ന് പരാജയപ്പെട്ടാലും അത് h2 മുതലായവ ഉപയോഗിക്കുന്നു അതിനാൽ അത് വളരുന്നതും അങ്ങനെയാണ് അത് ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കുന്നതും കാരണം നിങ്ങൾക് കാണാൻ കഴിയും നും നും ഇടയിലുള്ളത് എന്ന ഫങ്ക്ഷൻ അല്ല അത് ആണ് കാരണം ഓവർഫ്ലോ ആയിരിക്കുന്നു എന്നാൽ മറ്റു യ്ക്ക് അത് ലളിതമായി ആണ് കാരണം ബക്കറ്റ് ഓവർഫ്ലോ ആയിട്ടില്ല ഇപ്പോൾ ഈ ഉം ഉം ലഭിക്കുന്നതിന് വളരെ ഉപയോഗപ്രദമായ ഒരു മാർഗ്ഗം എന്നത് ബിറ്റുകളാണ് അതിനാൽ ഒരു കീയെ അതിന്റെ ബിറ്റ് സ്ട്രിംഗ് ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഈ ഹാഷ് ട്രീയിൽ വ്യത്യസ്ത ബ്രാഞ്ചുകൾ ലഭിക്കുന്നതിന് ഒരാൾക്ക് ബിറ്റുകൾ പ്രയോഗിച്ചുകൊണ്ട് സാധിക്കും ഒരാൾക്ക് ഇതിനെ ഒരു ഹാഷ് ട്രീ എന്ന് വിളിക്കാം അതിനാൽ ഇത് ബിറ്റ് ആണെങ്കിൽ '0' ആണ് ബിറ്റ് 1 ആണെങ്കിൽ ഇവിടെ പോകാം ഇവിടെയും മറ്റും പോകാം അങ്ങനെ അത് വളരെ ലളിതമായ ഉദാഹരണമാണ് പക്ഷേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ ഇതിനെയാണ് ഡൈനാമിക് ഹാഷിംഗ് എന്ന് വിളിക്കുന്നത് കാരണം ഇത് സാഹചര്യത്തെ ഡൈനാമിക്കായി അഡോപ്റ് ചെയ്യുന്നു ഡാറ്റ കുറച്ചാൽ അതേ രീതിയിൽ തന്നെ കൊളാപ്സ് ആവുകയും ചെയ്യും അതിനാൽ ഇത്രയുമാണ് ഡൈനാമിക് ഹാഷിംഗിനെക്കുറിച്ച് ഉള്ളത് അടുത്തതായി നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രധാന കാര്യം ഹാഷ് ഇൻഡക്സ് ആണ് അതിനാൽ ഇതിനെ ഒരു ഹാഷ് ഇൻഡക്സ് എന്ന് വിളിക്കുന്നു കാരണം ഡാറ്റ ഒരു ഹാഷിംഗ് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു അടുത്തതായി നമുക്ക് ഓർഡേർഡ് ഇന്ഡക്സിനെക്കുറിച്ച് പഠിക്കാം അതിനാൽ ഓർഡേർഡ് ഇൻഡെക്സിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് നോക്കാം അതിനാൽ ഓർഡേർഡ് ഇൻഡെക്സ് ഫയൽ ഇതിനോട് യോജിക്കുന്ന ഒരു ഇൻഡക്സ് സീക്വൻഷ്യൽ ഫയൽ ഉണ്ട് തുടർന്ന് ഒരു പ്രൈമറി ഇൻഡെക്സ് ഉണ്ട് ഇതാണ് ഇൻഡെക്സിനൊപ്പം ഉള്ള ഓർഡേർഡ് സീക്വൻഷ്യൽ ഫയൽ പിന്നെ ഒരു പ്രൈമറി ഇൻഡെക്സ് ഉണ്ട് ഇതിനെ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് എന്നും വിളിക്കുന്നു ഈ ആട്രിബ്യൂട്ട് ഫയലിലെ ഓർഡർ നിർണ്ണയിക്കുന്നു തുടർന്ന് സെക്കൻഡറി ഇൻഡക്സ് അല്ലെങ്കിൽ നോൺ ക്ലസ്റ്ററിംഗ് ഇൻഡക്സ് ഉണ്ടാകാം അത് മറ്റേതെങ്കിലും ആട്രിബ്യൂട്ട് ആകാം അതിനാൽ പ്രൈമറി ഇൻഡെക്സ് അനുസരിച്ചാണ് ഫയൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇൻഡക്സ് ചെയ്യപ്പെടുന്ന മറ്റേതെങ്കിലും ആട്രിബ്യൂട്ടിനെ സെക്കണ്ടറി ഇൻഡക്സ് എന്ന് വിളിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു വഴിയാണ് ഇത് ഡെൻസ് ഇൻഡക്സ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു വഴിയുണ്ട് ഇത് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പദമാണ് ഡെൻസ് ഇൻഡക്സ് എന്നാൽ അവിടെ ഒരു ഇൻഡക്സ് റെക്കോർഡ് ഉണ്ട് എന്നതാണ് അഥവാ ഓരോ കീയ്ക്കും തത്തുല്യമായ ഇൻഡക്സ് അതിനാൽ ചില കീകൾക്ക് മാത്രം തത്തുല്യമായ ഇൻഡക്സ് റെക്കോർഡ്സ് ഉള്ള സ്പാർസ് ഇന്ഡക്സിന് വിപരീതമായി ഡെൻസ് ഇന്ഡക്സിനെ നമുക്ക് ഇങ്ങനെ പറയാം ഇപ്പോൾ ഈ സ്പാർസ് ഇൻഡക്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചില കീകൾക്ക് മാത്രം തത്തുല്യമായ ഇൻഡക്സ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ കീകൾ ഇവിടെ സീകവൻഷ്യൽ ആയിരിക്കണം അല്ലാത്തപക്ഷം ഒരാൾക്കു ഒരു പ്രത്യേക കീ കണ്ടെത്താനാകില്ല അതിന് അനുബന്ധമായ രേഖകളൊന്നുമില്ലെങ്കിൽ കൂടാതെ കീകൾ സീകവൻഷ്യൽ അല്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല അതിനാൽ ഇത് സ്പാർസ് ഇൻഡക്സിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ ഇത് ഇൻഡക്സുകളെ തരംതിരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് തുടർന്ന് മറ്റൊരു പ്രധാന മാർഗ്ഗമാണ് മൾട്ടി ലെവൽ ഇൻഡക്സ് എന്നത് അതിനാൽ മൾട്ടി ലെവൽ ഇൻഡക്സ് എന്നാൽ രണ്ട് ഇൻഡക്സുകൾ ഉണ്ട് അതിനാൽ പ്രൈമറി ഇൻഡക്സ് വളരെ വലുതാവുകയും ഇൻഡക്സ് പൂർണമായും മെമ്മറിയിൽ ഫിറ്റ് ആവുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ പ്രയോജനപ്പെടുത്താം അതിനാൽ ഒരു മൾട്ടി ലെവൽ ഇൻഡെക്സ് ഇത് ഒരു ഔട്ടർ ഇൻഡക്സും ഇന്നർ ഇൻഡക്സും ആയി വിഭജിക്കപ്പെടുമ്പോൾ അത് സംഭവിക്കാം അതിനാൽ ഔട്ടർ ഇൻഡക്സ് സ്പാർസ് ആണ് കാരണം ഇത് ഒരു മെയിൻ മെമ്മറിയിലും ഫിറ്റ് ആവുന്നില്ല അതിനാൽ എല്ലാം ഇന്ഡക്സിലാക്കാൻ കഴിയില്ല അതിനാൽ അതുകൊണ്ടാണ് അത് സ്പാർസ് ഉപയോഗിക്കുന്നത് കൂടാതെ ഇത് ഒരു പ്രൈമറി ഇൻഡക്സ് ആയിരിക്കണം ഇന്നർ ഇന്ഡക്സിന് ഒരു ഡെൻസ് പ്രൈമറി ഇൻഡക്സ് ആകാവുന്നതാണ് ഒരു മൾട്ടി ലെവൽ ഇൻഡക്സ് ഇങ്ങനെയായിരിക്കണം ഇത് സ്പാർസ് ആയിരിക്കണമെന്നത് വളരെ പ്രധാനമാണ് കൂടാതെ ഇതിനെ ഔട്ടർ ഇൻഡക്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത്രയുമാണ് ഓർഡേർഡ് ഇന്ഡക്സിനെക്കുറിച്ച് അടുത്തതായി ട്രീ ബേസ്ഡ് ഇന്ഡക്സിങ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് പഠിക്കാം